ഇൻറലിജൻസ് ആശയത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം സൈക്കോളജിസ്റ്റുകൾ വിവിധതരത്തിൽ ഇൻറലിജൻസിനെ നിർവചിച്ചിട്ടുണ്ട് അവയിൽ പരക്കെ അംഗീകരിച്ചിട്ടുള്ളത് ഡേവിഡ് വെക്സ്ലർ എന്ന വ്യക്തിയുടെ നിർവചനമാണ് അതിൻപ്രകാരം ഇൻറലിജൻസ് അഥവാ ബുദ്ധി എന്നത് യുക്തിപരമായി ചിന്തിക്കുവാനും ഉദ്ദേശ ലക്ഷ്യത്തോടെ കൂടി പ്രവർത്തിക്കുവാനും തൻറെ സാഹചര്യങ്ങളെ ക്രിയാത്മകമായും ഫലപ്രദമായും നേരിടുവാനുമുള്ള കഴിവിൻറെയും ആകെത്തുകയാണ് മനുഷ്യൻറെ കഴിവിൻറെ വിവിധ തലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനാൽ ഈ നിർവചനത്തെ സമഗ്രമായ ഒരു നിർവ്വചനമായി കണക്കാക്കുന്നു ആദ്യമായി ഈ നിർവചനം മനുഷ്യൻറെ കഴിവിൻറെ ആകെത്തുകയെ കുറച്ചു പറയുന്നു മനുഷ്യൻറെ കഴിവുകൾ ഒരു വാക്കിലോ നിർവചനത്തിലൊ സംഗ്രഹിക്കുവാൻ കഴിയാത്തതിനാലാണ് കഴിവിൻറെ അഗ്രിഗേറ്റ് അഥവാ ആകെത്തുക എന്ന പദം ഉപയോഗിക്കുന്നത് രണ്ടാമത് ഉദ്ദേശലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇതിനെയാണ് സൈക്കോളജിസ്റ്റുകൾ ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ അതായത് ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനശൈലി എന്ന് പറയുന്നത് ആകയാൽ നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുകയും അതോടൊപ്പം അവയെ യുക്തിപരമായി വീക്ഷിക്കേണ്ടതും ആവശ്യമാണ് അതായത് നിങ്ങളുടെ ചിന്തകളിൽ ലോജിക് അഥവാ യുക്തി ഉപയോഗിക്കുന്നതിനെയാണ് ലോജിക്കൽ തിങ്കിങ് അഥവാ യുക്തിപരമായ ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ലോജിക്കൽ തിങ്കിങ് അഥവാ യുക്തിപരമായ ചിന്ത എന്ന് വിളിക്കുന്നത് കാരണം അത് സിസ്റ്റമാറ്റിക്കും അഥവാ ക്രമാനുഗതം ഫാക്സ് ആൻഡ് ഫിഗേർസ് അഥവാ വസ്തുതാപരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് കണക്കുകൂട്ടലുകൾ നടത്തി നമ്മുടെ ആർഗ്യുമെന്റുകൾ സാധുവൊ അസാധുവൊ എന്ന് വിലയിരുത്തുവാനും ആകുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ ലോജിക്കൽ അഥവാ യുക്തിപരമക്കുന്നത് അതിനാലാണ് സിസ്റ്റമാറ്റിക് തിങ്കിംഗ് ലോജിക്കൽ തിങ്കിംഗ് എന്നിവ ബുദ്ധിപരം അഥവാ ഇൻറലിജൻസുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്നത് അടുത്തത് സാഹചര്യങ്ങളെ ക്രിയാത്മകമായും ഫലപ്രദമായും നേരിടുവാനുമുള്ള കഴിവാണ് നമ്മുടെ പെരുമാറ്റം വളരെ ഫലപ്രദമാണ് എന്ന് കരുതുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കും അവിടെ പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ പെരുമാറ്റം ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുകയില്ല ആകയാൽ കോണ്ടൻറ്റ് അഥവ ഉള്ളടക്കത്തെകാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺടെക്സ്റ്റ് അഥവാ സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യമാണ് സന്ദർഭം ഇല്ലാതെയുള്ള ഉള്ളടക്കം അസാധുവാണ് ആകയാൽ നാം പറയുകയും വാദിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സന്ദർഭം ഇല്ലായെങ്കിൽ നാം പറയുന്നത് അർത്ഥമില്ലാത്ത വിവരക്കേട് ആണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും ആകയാൽ നിങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഇൻറലിജൻസ് എന്ന വിഷയത്തെകുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് പൊളിറ്റിക്സിനെകുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അസംബന്ധമാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും ആകയാൽ മനുഷ്യൻറെ പെരുമാറ്റത്തെ മനസ്സിലാക്കേണ്ടത് അതിൻറെ സാഹചര്യത്തിന് അനുസരിച്ചാണ് ആകയാൽ താഴെപ്പറയുന്നവയാണ് ഇൻറലിജൻസിൻറെ പ്രധാന സവിശേഷതകൾ അത് ഒരു ആകമാന ശേഷിയാണ് ലക്ഷ്യബോധമുള്ള പ്രവർത്തിയാണ് അത് യുക്തിസഹമാണ് ഒരു സന്ദർഭം ഉള്ളതിനാൽ അത് ഫലപ്രദമാണ് മനുഷ്യൻറെ കഴിവുകളുടെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനാൽ ഇത് വളരെ സമഗ്രമായ നിർവചനമാണെങ്കിലും ഒരു വ്യക്തിയുടെ അനന്തമായ ആകമാന ശേഷി അഥവാ ഗ്ലോബൽ കപ്പാസിറ്റി അളന്ന് എടുക്കുവാൻ സാധ്യമല്ല എന്ന ഒരു വസ്തുതയുണ്ട് ഒരു പ്രത്യേക ഫ്രെയിംവർക്കിൽ ഒരു വ്യക്തിയുടെ ആകമാന ശേഷി അളന്നു തിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ് ആയതിനാലാണു ഡേവിഡ് വെക്സ്ലർ ഒരു അടൽട്ട് ഇൻറലിജൻസ് ടെസ്റ്റ് വികസിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇത് പ്രായോഗികമല്ല എന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇൻറലിജൻസിൻറെ കാഴ്ചപ്പാടിൽ പൌരസ്ത്യം പാശ്ചാത്യത്തേക്കാൾ വ്യത്യസ്തമായതിനാൽ ഈ ടസ്റ്റിലൂടെ യഥാർത്ഥ ആകമാന ശേഷിയെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല ഈ കാരണത്താൽ വെസ്ക്ലറുടെ ഇൻറലിജൻസ് ടെസ്റ്റിനേക്കാൾ ഉപരിയായി ആളുകൾ അതിനു മുൻപേ തന്നെ ഉണ്ടായിരുന്ന E G ബോറിംഗിൻറെ ഇൻറലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻറലിജൻസ് കൺസെപ്ച്യലൈസേഷൻ അംഗീകരിച്ചു തുടങ്ങി എല്ലാ ടെസ്റ്റുകൾക്കും അതിൻറെതായ പരിമിതികൾ ഉണ്ടെങ്കിലും തങ്ങളുടെ ഇൻറലിജൻസ്ൻറെ അളവുകോൽ ആകുന്നു എന്നതിനോടൊപ്പം ലളിതമായ പ്രക്രിയയിൽ ഉയർന്ന ധാർമ്മിക മൂല്യം ഉള്ളതിനാൽ വ്യക്തികൾ അത് സ്വീകരിച്ചു നമ്മുടെ ഇൻറലിജൻസ് പ്രൊഫൈലിനെ കുറിച്ച് ഒരു മതിപ്പ് നൽകുന്നതിനാലാണ് നാം ഇൻറലിജൻസ് ടെസ്റ്റിന് പോകുന്നത് ഇത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഒന്ന് നിങ്ങളുടെ ഇൻറലിജൻസിൻറെ നിലവിലുള്ള സ്ഥിതി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു അതിൻപ്രകാരം ഒരു വ്യക്തി കണക്ക് വിഷയത്തിൽ മികച്ചതാണ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എബിലിറ്റിയിൽ മികവുറ്റതാണ് എന്ന് പറയുവാനാകും അങ്ങനെ ഒരു വ്യക്തിയുടെ കഴിവുകളെ കണ്ടെത്തി അദ്ദേഹം ആ മേഖലയിൽ പ്രാവീണ്യം നേടും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ വർത്തമാന കാലത്തെ കുറിച്ചും ഭാവി കാലത്തെ കുറിച്ചും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഒരു മനുഷ്യൻറെ ബുദ്ധിശക്തി ഇൻറലിജൻസ് ടെസ്റ്റിന് അതീതമാണെന്ന് ചില ആളുകൾ പറയാറുണ്ട് സൈക്കോളജിസ്റ്റുകളായ റോബർട്ട് സ്റ്റെർബർഗും വില്യം സാൽറ്ററും ഇൻറലിജൻസിനെ നിർവ്വചിക്കുന്നത് ഇപ്രകാരമാണ് ജീവിത വിജയം കൈവരിക്കുവാനും വെല്ലുവിളികളെ വിജയകരമായി നേരിടുവാനും അനുഭവങ്ങളിൽനിന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ഉൾക്കാഴ്ചയും ഉൾപ്പെടുന്ന ലക്ഷ്യബോധവും അഡാപ്റ്റീവ് സ്വഭാവവുമുള്ള കഴിവാണ് ബുദ്ധി ലക്ഷ്യബോധം അഡാപ്റ്റീവ് എന്നീ വിവിധതരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനാൽ മുകളിൽ പ്രതിപാദിച്ച നിർവചനങ്ങളെക്കാൾ ഇത് കുറച്ചുകൂടി സങ്കീർണമായതാണ് ഇൻറലിജൻറ്റായ ഒരു വ്യക്തി ഏതുതരം സാഹചര്യങ്ങളോടും ഉചിതമായ രീതിയിൽ പൊരുത്തപ്പെടുന്നു ഉദാഹരണത്തിന് റോമിൽ ചെല്ലുമ്പോൾ റോമാകാരനെ പോലെ പെരുമാറുക അനുഭവങ്ങളിൽനിന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കഴിവ് ഉൾപ്പെടുന്നതിനാൽ ഇൻറലിജൻസിനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവെന്ന് നിർവചിക്കുവാനാകും അനവധി അനുഭവങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുന്നതുകൊണ്ട് അർത്ഥമില്ല മറിച്ച് അനുഭവജ്ഞാനതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് ഉണ്ടാകേണ്ടതുണ്ട് അനുഭവങ്ങളെ ഒരു ചിട്ടയായ അഥവാ സിസ്റ്റമാറ്റിക് അപ്റൊച്ചോടുക്കൂടി കാണുമ്പോഴാണ് പ്രശ്നങ്ങളെ വ്യക്തമായി പരിഹരിക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ചിട്ടയായ അവതരണം ശാസ്ത്രീയ കഴിവിന്റെ അടയാളമാണ് ഒരു വ്യക്തി ബുദ്ധിമാനാണെങ്കിൽ അദ്ദേഹം യുക്തിസഹമായിരിക്കും ആകയാൽ എന്താണ് യുക്തി യുക്തി മുഖാന്തരം നിങ്ങൾക്ക് നന്മതിന്മകളെ തിരിച്ചറിയുവാനും തെറ്റും ശരിയും മനസ്സിലാക്കുവാനും സാധിക്കുന്നു അപ്രകാരം നിങ്ങൾ ബുദ്ധിമാനായ വ്യക്തിയാണെങ്കിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയകരമായി നേരിടുവാനാകും ദൃഢനിശ്ചയമുള്ള ബുദ്ധിമാനായ വ്യക്തിക്ക് അഞ്ചോ പത്തോ ദിവസം ഭക്ഷണം ഇല്ലാതെ കഴിയുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ബുദ്ധിയില്ലാത്ത വ്യക്തിത്വമാണെങ്കിൽ ജീവിതത്തിലെ വിവിധതരത്തിലുള്ള സങ്കീർണ അവസ്ഥകൾ അഭിമുഖീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകൾ പറയാറുണ്ട് ഹൈന്ദ സസ്യാഹാരിയായ എനിക്ക് മാംസം അധികമായി ഉപയോഗിക്കുന്ന പാശ്ചാത്യ ദേശത്ത് എങ്ങനെ ജീവിക്കുവാനാകും നിങ്ങളുടെ ചിന്താ പ്രക്രിയ ഇത്തരം ദിശയിൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് വിഡ്ഢിത്തതിൻറെ സൂചകമായി മാറുന്നു ഇത്തരക്കാർക്ക് സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ നന്നേ ബുദ്ധിമുട്ടാണ് ഇവിടെ ഭക്ഷണത്തേക്കാൾ പ്രാധാന്യം ലക്ഷ്യത്തിനാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ നമ്മുടെ ചിന്താശക്തിയെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു സൈനിക പരിശീലനത്തിൽ സൈനികരെ മികവുറ്റവരക്കുവാനായി ഒരു കാടിൻറെ നടുവിൽ കൊണ്ടുചെന്ന് ഇറക്കുകയും രണ്ടു മണിക്കൂറിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട് അഞ്ചു കിലോമീറ്റർ റേഡിയസ് ഉള്ള കാടായതിനാലാണ് രണ്ടുമണിക്കൂർ എന്ന ചുരുങ്ങിയ സമയം നൽകുന്നത് ഇത്തരത്തിൽ സമാനമായ പരിശീലനം മരുഭൂമികളിൽ നടത്താറുണ്ട് ഇൻറലിജൻറ്റ് അഥവാ ബുദ്ധിയുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള പരിശീലനങ്ങളെ അതിജീവിക്കും എന്നാൽ മറ്റുള്ളവർ ലക്ഷ്യബോധമില്ലാതെ അവിടങ്ങളിലായി സഞ്ചരിക്കുന്നു ഇതാണ് ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നാം ഒരു വ്യക്തിയുടെ ബുദ്ധിപരമായ കഴിവുകളുടെ പ്രകൃതവും വികാസവും പരിശോധിക്കുമ്പോൾ അവയ്ക്ക് പിന്നിൽ രണ്ട് തത്വങ്ങൾ ദൃശ്യമാകും ഒന്ന് നെയ്ച്ചർ രണ്ട് നർച്ചർ ചില ആളുകൾക്ക് ജന്മനാ ബുദ്ധി ലഭിക്കുന്നു ആയതിനാൽ ശാസ്ത്രജ്ഞൻമാർ ഇന്റലിജൻസ് ജീനുകളെ കുറിച്ചുള്ള പഠനം നടത്തുന്നു ബുദ്ധിമാനായ ഒരു രാജാവിൻറെ മകൻ ബുദ്ധിമാനായ ഒരു രാജാവായി തീർന്നു എന്ന് പറയുമ്പോൾ അവൻറെ ഇൻറലിജൻസ് ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യത്തിൻറെ ഭാഗമാകുന്നു എന്നാൽ നമ്മുടെ ഇൻറലിജൻസിൻറെ മറ്റു ചില തലങ്ങൾ നാം വളരുന്ന സാഹചര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതാണ് ഉദാഹരണത്തിന് വളരുന്ന ജീവിത അന്തരീക്ഷം നമ്മുടെ വീട് നാം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സ്കൂൾ ജീവിതം എന്നിവ ഇവയിൽ ചിലതാണ് ഇത് വീട്ടിൽനിന്ന് ആരംഭിക്കുന്നതിനാലാണ് കുട്ടികളുടെ ഇൻറലിജൻസ് പ്രൊഫൈൽ വർദ്ധിപ്പിക്കുവാനുള്ള ആദ്യവിദ്യാലയമായി വീടിനെ കണക്കാക്കുന്നത് ഉയർന്ന ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് വാക്കുകൾ ഉപയോഗിക്കുവാനും അക്കങ്ങൾ കൃത്യമായി ഉച്ചരിക്കുവാനും എളുപ്പമാണ് ഐ ക്യ ടെസ്റ്റുകൾ ഒരു വിദ്യാർഥിയുടെ റീസണിങ് എബിലിറ്റി മനസ്സിലാക്കുവാൻ ഉള്ളതാണ് എന്നാൽ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർഥികളുടെയും ഇൻറലിജൻസ് പ്രൊഫൈയിൽ മനസ്സിലാക്കുവാൻ ഐക്യു ടെസ്റ്റുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുമൊ എന്നതാണ് ചോദ്യം ഇൻറലിജൻസിനെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സഹായിക്കുന്ന വിവിധ മെഷർമെൻറ് ആസ്പെറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം ഇൻറലിജൻസിൻറെ അർത്ഥം സംസ്ക്കാരത്തിന് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഇൻറലിജൻസിൻറെ അവിഭാജ്യഘടകങ്ങളിൽ പാശ്ചാത്യരും പൌരസ്ത്യരും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് സിസ്റ്റമാറ്റിക് അതുപോലെതന്നെ കൊഗ്നിറ്റീവ് ഇൻറലിജൻസിൽ വിശ്വസിക്കുന്നതിനാൽ തന്നെ ഇന്ത്യകാരുടെ ബുദ്ധി എന്ന ആശയം പാശ്ചാത്യ ദേശത്തെ അപേക്ഷിച്ച് വിപുലമായ ആശയമാണ് ഈ കാരണത്താലാണ് സംസ്കാരത്തിന് പ്രാധാന്യമുള്ളത് പശ്ചാത്യ ദേശങ്ങളിൽ ഇൻറലിജൻസ് എന്ന ആശയത്തെ മനസ്സിലാക്കുവാൻ ലോജിക് അഥവാ യുക്തിസഹമായ ചിന്തയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളൊരു ഇൻറലിജൻറ്റായ വ്യക്തി ആണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത് ചില പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് പശ്ചാത്യ കാഴ്ചപ്പാടുകളിൽ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുന്നത് അവ ചെയ്ത പരീക്ഷിക്കുന്നതിലൂടെയാണ് പൌരസ്ത്യ കാഴ്ചപ്പാടുകളിൽ ഇതിൽ ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഒരു പെർസെപ്ച്വൽ അഥവാ കാര്യങ്ങളെ ഇന്ദ്രിയപരമായി വിശകലനം ചെയ്യുന്നതിലൂടെയാണ് ഇൻറലിജൻസിന് അലെങ്കിൽ ബൌദ്ധികപരമായ കഴിവുകൾക്ക് അനേകം ഉപവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും അഞ്ച് ഉപവിഭാഗങ്ങളെ കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യത്തേത് കോഗ്നിറ്റീവ് ഇവ ലോജിക്കൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റികായുള്ള കഴിവുകളാണ് രണ്ടാമത് സോഷ്യൽ ഇൻറലിജൻസ് സാമൂഹ്യപരമായ സാഹചര്യങ്ങളിൽ മനുഷ്യരോട് ഇടപെടാനുള്ള കഴിവാണിത് ചില ആളുകൾ കോഗ്നിറ്റീവ് പരമായി ബുദ്ധിമാന്മാരാണെങ്കിലും സോഷ്യൽ ഇൻറലിജൻസ് കുറവായിരിക്കും ഇത്തരത്തരകാർക്ക് തങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉയർന്ന സ്റ്റേജ് ഫിയർ അഥവാ സഭാ കമ്പം കാരണം തങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവരോട് അവതരിപ്പിക്കുവാൻ ഇവർ ആവശ്യപ്പെടാറുണ്ട് ഇവരുടെ ടെക്നിക്കൽ ഇൻറലിജൻസ് വളരെ ഉയർന്നതാണെങ്കിലും സോഷ്യൽ ഇമോഷണൽ ഇൻറലിജൻസ് കുറവായിരിക്കും പാഠ്യപദ്ധതികളിൽ ഇമോഷണൽ ഇൻറലിജൻസിൻറെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ് മറ്റുള്ളവരുടെ ബൌദ്ധികപരമായ കഴിവുകളെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് അഥവാ താന്ത്രിക നൈപുണ്യം പരിപോഷിപ്പിക്കുവാൻ പരിശീലന പരിപാടികൾ ഉണ്ട് എന്നാൽ കുട്ടികളുടെ ഇമോഷണൽ ഇൻറലിജൻസിനെ വളർത്തിയെടുക്കുന്നതിനതിയി യാതൊരുവിധ പരിശീലനവും വിദ്യാഭ്യാസ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ വർഷങ്ങളിൽ പൊതു വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖല മുതൽ തൊഴിൽ മേഖലകൾ വരെ നടന്ന വിവിധ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രാക്ടിക്കൽ ഇൻറലിജൻസ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി സിദ്ധാന്തത്തിനും പുസ്തകങ്ങൾക്കും അതീതമായി അനുഭവങ്ങളിൽനിന്ന് ആർജിക്കുന്നതിനാലാണ് ഇത് പ്രാക്ടിക്കൽ ഇൻറലിജൻസ് അറിയപ്പെടുന്നത് ഇത് സമ്പർക്കത്തിലൂടെ അല്ലെങ്കിൽ എക്സ്പോഷറിലൂടെ പരിഭോഷിക്കപെടുവാൻ ആകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നാൽ ഇത് നിശ്ചയമായും നമ്മുടെ അനുഭവത്തിലൂടെയും അന്തര്ജ്ഞാനത്തിലൂടെയും നേടിയെടുക്കുവാൻ സാധിക്കും ആകയാൽ ഇമോഷണൽ ഇൻറലിജൻസിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇമോഷൻ ഹൃദയവുമായും ഇൻറലിജൻസ് നമ്മുടെ തലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാലാണ് നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തലയും ഹൃദയവും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു എന്ന് പറയുന്നത് ഇപ്രകാരം തലയെ നമ്മുടെ ഹാർഡ്വെയർ എന്നും ഹൃദയത്തെ നമ്മുടെ സോഫ്റ്റ്വെയർ എന്നും വിളിക്കാം ഇമോഷണൽ ഇൻറലിജൻസ് എന്നത് മനുഷ്യൻറെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള കോമ്പിനേഷൻ അഥവാ കൂടിച്ചേരലാണ് സോഫ്റ്റ്വെയറിൻറെ അഭാവത്തിൽ ഹാർഡ്വെയറിനൊ സിസ്റ്റമാറ്റികായ ഹാർഡ്വെയർ ഇല്ലാതെ സോഫ്റ്റ്വെയറിനൊ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല ഇൻറലിജൻസിനെ കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തുകയും എപ്രകാരം ഇതിലൂടെ മനുഷ്യജീവിതത്തിൽ ഫലപ്രാപ്തി ഉണ്ടാക്കാമെന്നും ചർച്ച ചെയ്യുന്നതാണ് മുൻപോട്ടു നീങ്ങുന്ന മുമ്പായി ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു കമ്പ്യൂട്ടർ സയൻസിൽ കണ്ടുവരുന്ന മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണിത് ഇപ്രകാരം രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ അതിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട അതിനനുസരിച്ച് ഒരു പ്രത്യേക ദിശയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യൻറെ ഇൻറലിജൻസും കമ്പ്യൂട്ടറിൻറെ ഇൻറലിജൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യൻറെ മനസ്സിന് രണ്ടു പ്രോസസിംഗ് സിസ്റ്റംസ് ലഭ്യമാണ് ഒന്ന് സൈമൾറ്റെനിയസ് അഥവാ ഒരേസമയം പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് മറ്റൊന്ന് സക്സ്സസീവ് അഥവാ തുടർച്ചയായത് എന്നാൽ കാലാകാലങ്ങളായി കമ്പ്യൂട്ടർ സക്സ്സസീവ് പ്രോസസിങ്ങാണ് പിന്തുടരുന്നത് സിസ്റ്റമാറ്റിക് അഥവാ ഘട്ടംഘട്ടമായി കാര്യങ്ങൾ ചെയ്യുന്നതിനാലാണ് സക്സ്സസീവ് പ്രോസസിംഗ് പിന്തുടരുന്നു എന്ന് പറയുന്നത് സൈമൾറ്റെനിയസ് പ്രോസസിങ് വേണ്ടിയുള്ള ഗവേഷണങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ് ശാസ്ത്രജ്ഞൻമാർ ചുരുക്കത്തിൽ ഇൻറലിജൻസിന് മെക്കാനിക്കൽ ഇൻറലിജൻസ് വിഷ്വൽ എബിലിറ്റി എന്നിവ പോലുള്ള മറ്റു പല ഉപവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും മുകളിലത്തെ സ്ലൈഡിൽ സൂചിപ്പിക്കുന്ന അഞ്ചു ഉപവിഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമീപകാലത്ത് വലിയ ഹിറ്റായി മാറിയ ദൃശ്യം എന്ന ചലച്ചിത്രം ഏവരും ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മലയാളഭാഷയിൽ മോഹൻലാൽ ഇംഗ്ലീഷ് ഭാഷയിലെ ഈ പാഠത്തിൻറെ ട്രാൻസ്ക്രിപ്റ്റിൽ Ajay Devgan എന്ന് കൊടുത്തിരിക്കുന്നത് ദൃശ്യം ചലച്ചിത്രത്തിൻറെ ഹിന്ദി റീമേക്കിനെ ഉദ്ദേശിച്ചാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ഇൻറലിജൻസിന് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രത്തിലെ നായകനും കുടുംബവും മറ്റു കഥാപാത്രങ്ങൾക്ക് വിഷ്വൽ ഇമേജസ് അഥവാ ദൃശ്യാവിഷ്കാരം നൽകുന്നതിലൂടെ മനുഷ്യൻറെ പ്രവർത്തനങ്ങളിൽ വിഷ്വൽ മെമ്മറിക്കുള്ള പ്രാധാന്യവും അവ വരുത്തുന്ന മാറ്റങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ടിക്കറ്റുകൾ പോലുള്ള തെളിവുകൾ കാണിക്കുന്നതിലൂടെയും ദൃശ്യാനുഭവം ഒരുക്കുന്നതിലൂടെയും നടക്കാത്ത കാര്യങ്ങൾ പോലും തങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അവർ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിച്ചു ഓർമ്മകൾ നമ്മിൽ നിലനിൽക്കുകയും അവ സാഹചര്യത്തിനനുസരിച്ച് വീണ്ടെടുക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതിലാണ് ഇത് സംഭവിക്കുന്നത് അതിനാലാണ് ശബ്ദാവിഷ്കാരത്തേക്കാൾ ഉപരിയായി ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ദൃശ്യാവിഷ്കാരം കൂടുതൽ സഹായകരമാണെന്ന് പറയുന്നത് നാം കേൾക്കുന്ന കാര്യത്തേക്കാൾ കാണുന്ന കാര്യങ്ങളാണ് കൂടുതലായി ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്നത് എന്ന് വിവിധ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കാറ്റെലിൻറെ അഭിപ്രായത്തിൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നീ ഉപവിഭാഗങ്ങളുണ്ട് ഒരു വ്യക്തി ജീവിക്കുന്ന സംസ്കാരത്തിൽനിന്ന് അവൻ ആർജ്ജിച്ച എടുക്കുന്ന ഇൻറലിജൻസാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അതായത് നമ്മുടെ സംസ്കാരത്തിൻറെ സ്വാധീനതോടുകൂടി ഉണ്ടാകുന്ന ബുദ്ധിവികാസമാണിത് ഒരു പ്രായപരിധിക്കപ്പുറം നമുക്ക് ബുദ്ധിവികാസം ഉണ്ടാകില്ല എന്ന് ആളുകൾ പറയാറുണ്ട് ഉദാഹരണത്തിന് ഏകദേശം 19 വയസ്സോടുകൂടി ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് എബിലിറ്റികൾ ഉയർന്ന അളവിൽ എത്തുകയും പിന്നീട് അധികം വികാസം സംഭവിക്കാതെ ഏകദേശം 40 വയസ്സോടുകൂടി അവ കുറയുകയും ചെയ്യുന്നു ഇവയെല്ലാം തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റികളുമായി ബന്ധപ്പെട്ടതാണ് ഒരു പ്രായമുള്ള വ്യക്തിയെ പറ്റി നമുക്ക് ചിന്തിക്കാം ഉദാഹരണത്തിന് ഒരു വക്കീലാണെന്നിരിക്കട്ടെ അദ്ദേഹം അറിവുള്ളവനും യുക്തിസഹമായി ചിന്തിക്കുന്നവനും ആകയാൽ തെറ്റായ കാര്യങ്ങളെ ശരിയെന്നും ശരിയായ കാര്യങ്ങളെ തെറ്റൊന്നും തെളിയിക്കുവാൻ സാധിക്കും എങ്ങനെയാണിത് സാധിക്കുന്നത് ഒരു ലോജിക്കൽ സീക്വൻസ് പിന്തുടരുകയും വിവരങ്ങളിൽ കൃത്രിമം കാണിക്കുന്നതിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് ആയതിനാൽ തന്നെ പ്രായമുള്ളവർ യുവാക്കളെക്കാൾ ബുദ്ധികുറവുള്ളവരാണെന്ന് നാം കരുതാറില്ല നമ്മുടെ ചില കഴിവുകൾ ഒരു പ്രായം വരെ വർദ്ധിക്കുന്നു എന്നാൽ യുക്തിപരമായ കഴിവുകൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടുകൂടി കുറയുവാനുള്ള സാധ്യതയുണ്ട് അതേസമയം അനുഭവജ്ഞാനം കൂടുതലുള്ളതിനാൽ പ്രായമുള്ളവർക്ക് അനുഭവവുമായി ബന്ധപ്പെട്ട അറിവുണ്ട് എന്നാൽ ഇക്കൂട്ടരുടെ കമ്പോണൻഷ്യൽ ഇൻറലിജൻസ് അതായത് പഠന മേഖലയുമായി ബന്ധപ്പെട്ട ബുദ്ധി കുറവായിരിക്കും അപ്രകാരം ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കോൺടെക്ച്വൽ നോളജുമായും ഫ്ലൂയിഡ് ഇൻറലിജൻസ് കമ്പോണൻഷ്യൽ ഇൻറലിജൻസുമായും ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പോണൻഷ്യൽ ഇൻറലിജൻസിൽ ഉൾപ്പെടുന്ന നമ്മുടെ ശ്രദ്ധ ധാരണ പ്രതികരണം മെമ്മറി പഠനം എന്നീ കാര്യങ്ങൾ കോഗ്നിറ്റീവ് ഇൻറലിജൻസിൻറെ ഭാഗമാണ് ഇവയെല്ലാം ജീവിതത്തിൻറെ പ്രാരംഭഘട്ടത്തിൽ ക്രമേണ വളർച്ച പ്രാപിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി ഉത്തമ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നതിനാൽ ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് പെട്ടെന്ന് ഓടുവാനും പ്രതികരിക്കുവാനും അനായാസം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ ഓർത്തെടുക്കുവാനും സാധിക്കുന്നു എന്ന് ചുരുക്കം അതിനാൽ തന്നെ ഇവയെല്ലാം കേടുകൾ സംഭവിക്കാതിരിക്കുന്നു എന്നാൽ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുന്നതൊടുകൂടി പ്രത്യേകിച്ചും 40 വയസ്സിനുശേഷം ഫിസിയോളജിക്കൽ സിസ്റ്റങ്ങൾ മന്ദഗതിയിലാക്കുന്നു അപ്രകാരം 40 വയസ്സിനു ശേഷം സംഭവിക്കുന്ന കാഴ്ചക്കുറവ് കേൾവി കുറവ് ആദിയായ കാര്യങ്ങൾ തികച്ചും സ്വാഭാവികമായതാണ് അതായത് ഈ കാലയളവ് ജൈവശാസ്ത്രപരമായ സ്വാഭാവിക ക്ഷയം സംഭവിക്കുന്ന കാലഘട്ടമാണ് പ്രായമാകുന്നതോടെ കൂടി ബൌദ്ധികമായ കഴിവുകൾക്ക് കുറവുകൾ സംഭവിക്കാറുണ്ട് എങ്കിലും മാനസിക പ്രവർത്തനത്തിന് വളർച്ചയും സ്ഥിരതയും പ്രായമായവരിലും കണ്ടുവരാറുണ്ട് പ്രധാനമായും പ്ലാസ്റ്റിറ്റി മൾട്ടി ഡയറക്ഷണാലിറ്റി ഇൻറർ ഇൻഡിവിജ്വൽ വേരിബിലിറ്റി എന്നീ ആശയങ്ങളിൽ ഈ ആശയങ്ങളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഒരു നിർദ്ദിഷ്ട ഉറപ്പോടുകൂടി ഒരു വ്യക്തിയുടെ കഴിവുകളിൽ പരിഷ്ക്കരണങ്ങൾ വരുത്തുന്നതാണ് പ്ലാസ്റ്റിറ്റി എന്ന ആശയം ഒരു വ്യക്തിക്ക് വൈവിധ്യമാർന്ന സമീപനവും അനുഭവവും അനുഭവ ജ്ഞാനത്തോട് തുറന്ന സമീപനവും ഉണ്ടെങ്കിൽ അവൻറെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ അദ്ദേഹത്തിനു സാധിക്കും മൾട്ടി ഡയറക്ഷണാലിറ്റി എന്ന ആശയത്തിലൂടെ ഒരു വ്യക്തിയുടെ ഇൻറലിജൻസിനെ വിവിധ ദിശകളിൽ വളർത്തിയെടുക്കുവാനും പ്രായമേറുന്നത് അനുസരിച്ച് അവയിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും ഇപ്രകാരം വൈവിധ്യമാർന്ന നൈപുണ്യങ്ങൾ നേടുന്നതിലൂടെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സമാനമായ രീതിയിൽ വ്യത്യസ്ത തലങ്ങളിൽ ഇൻറലിജൻസിനെ വളർത്തിയെടുക്കുവാനും ഉപയോഗിക്കുവാനും സാധിക്കുന്നു അതിനാൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ വികസന തകർച്ച കാണിക്കുന്ന ചില പഠനങ്ങളാണിവ ഇവിടെ പ്രാരംഭത്തിൽ ഉയർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും പിന്നീട് ക്രമേണ താഴേക്ക് പോകുന്നത് ഫ്ലൂയിഡ് ഇന്റലിജൻസുമാണ് ഏകദേശം 40 വയസ്സിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പ്രായമായ ഒരു വ്യക്തിയോട് മെമ്മറൈസ് അല്ലെങ്കിൽ ഓർത്തു വെക്കാമോ ആവശ്യപ്പെട്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു 15 വയസ്സ് പ്രായമായ ഒരു കുട്ടിക്ക് ഇത് അനായാസം സാധ്യമാണ് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മുമ്പായി നിരവധി കാര്യങ്ങൾ തങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും അത് ഓർത്തെടുക്കുവാൻ സാധിക്കുന്നു എന്നാൽ പ്രായമായവർക്ക് ഇതേ കാര്യം വളരെ ബുദ്ധിമുട്ടോടുകൂടിയൊ ഇരട്ടിയിൽ കൂടുതൽ സമയം എടുത്തൊ മാത്രമേ ചെയ്യുവാനാകു അടുത്തത് ഇൻറർ ഇൻഡിവിജ്വൽ വേരിബിലിറ്റി എന്നറിയപ്പെടുന്ന ആശയമാണ് വ്യക്തിഗത വ്യത്യാസം കൊണ്ടും എക്സ്പോഷർ അഥവാ സമ്പർക്കത്താലും പ്രായപൂർത്തിയായ വ്യക്തിത്വങ്ങളുടെ ബൌദ്ധിക വികാസം വിവിധ ദിശയിൽ വ്യത്യസ്തമായിരിക്കും വ്യക്തിത്വങ്ങൾ വളരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതു പോലെ അവരുടെ അനുഭവ ജ്ഞാനം അഭിപ്രായം എന്നീ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും വളരെ തുറന്ന സമീപനമുള്ള ചുറ്റുപാടിൽ ജീവിച്ച വ്യക്തി അനുഭവങ്ങളോടു തുറന്ന സമീപനം കാണിക്കുകയും അദ്ദേഹത്തിൻറെ മാനസിക കാഴ്ചപ്പാടുകൾ വളരെ വിപുലമായിരിക്കും എന്നാൽ വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടിലും സാഹചര്യത്തിലും വളർന്ന വ്യക്തികൾ പൊതുവെ നാണമുള്ളവരും മറ്റുള്ളവരോട് ഇടപെടുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നവരുമായിരിക്കും ഇതാണ് ഇൻറർ ഇൻഡിവിജ്വൽ വേരിബിലിറ്റി എന്ന ആശയത്തിനൻറെ അർത്ഥം അടുത്തത് മനുഷ്യൻറെ ഇൻറലിജൻസ് അളക്കുന്നത് സംബന്ധിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ രണ്ട് സമീപനങ്ങൾ ഉണ്ട് ഒന്ന് എബിലിറ്റി ബേസ്ഡ് അപ്രോച് അഥവാ കഴിവുകളെ സംബന്ധിച്ച സമീപനം രണ്ടാമതായി ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് അപ്രോച് അല്ലെങ്കിൽ സവിശേഷതകളെ സംബന്ധിച്ച സമീപനം ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് അപ്രോച് വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ളത് അളക്കുവാൻ ഉപയോഗിക്കുന്നതാണ് എന്നാൽ എബിലിറ്റി എന്നത് സൈക്കോമെട്രിക് സമീപനവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യന്റെ കഴിവുകൾ അളനെടുക്കുവാൻ നാം സൈക്കോമെട്രിക് തത്വങ്ങൾ പ്രയോഗിക്കുന്നു ചില സൈക്കോമെട്രിക് ടൂളുകൾ അഡൽറ്റ് ഇൻറലിജൻസ് ടെസ്റ്റുകളാണ് ഉദാഹരണത്തിന് RPM SPM APM ആർ പി എം എന്നത് റാവൻസ് പ്രോഗ്രസ്സിവ് മെട്രിക്സ് Ravens progressive matrices എസ് പി എം സ്റ്റാൻഡേർഡ് പ്രോഗ്രസ്സിവ് മെട്രിക്സ് എ പി എം അഡ്വാൻസ്ഡ് പ്രോഗ്രസ്സിവ് മെട്രിക്സ് എന്നും അറിയപ്പെടുന്നു ഇവയെല്ലാംതന്നെ പ്രായം തിരിച്ചുള്ള നിയന്ത്രിത പരിശോധനയാണ് കൂടാതെ ദാസും നാഗ്ലിയേരിയും രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള സി എ സ് എന്ന ടെസ്റ്റും ഇതിനുപുറമേയുണ്ട് പാസ്സ് മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന സിദ്ധാന്തത്തിൻറെ ഉപജ്ഞാതാവായ ജെ പി ദാസ് ഇന്റലിജൻസ് മേഖലയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് പാസ്സ് മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്നത് പ്ലാനിങ് അഥവാ ആസൂത്രണം അറ്റൻഷൻ അഥവാ ശ്രദ്ധ സൈമൾടെനിയസ് അഥവാ ഒരേസമയത്തുള്ളത് സക്സ്സീവ് അഥവാ തുടർച്ച എന്നും അറിയപ്പെടുന്നു ഈ സിദ്ധാന്തത്തിൻറെ നാല് പ്രധാന മേഖലകളാണിത് ഇത് കോഗ്നിറ്റീവ് സിദ്ധാന്തവുമായി ബന്ധപ്പെതാണ് കോഗ്നിറ്റീവ് ഇൻറലിജൻസിൻറെ പരിധിയിൽ ഉൾപ്പെടുന്ന നാല് പ്രധാന ഡൊമെയ്നുകളാണ് പ്ലാനിങ് അറ്റൻഷൻ സൈമൾടെനിയസ് സക്സ്സീവ് ഈ ടെസ്റ്റ് ആഗോളതലത്തിൽ വളരെ ജനശ്രദ്ധയാകർഷിച്ചതാണ് ഏകദേശം പത്ത് ഭാഷകളിലേക്ക് ഈ ടെസ്റ്റ് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫ്രഞ്ച് സ്പാനിഷ് ജാപ്പനീസ് കൊറിയൻസ് ചൈനീസ് ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ ഇതിനെ കണ്ടെത്താനാകും ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഈ ടെസ്റ്റ് സൈക്കോമെട്രിക് തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് റാവൻസ് പ്രോഗ്രസ്സിവ് മെട്രിക്സിൽ നിന്നു വിഭിന്നമായി ഈ ടെസ്റ്റ് സി എ എസ് എന്നറിയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ഇരുപതിൽപരമായ കോഗ്നിറ്റീവ് എബിലിറ്റി ഡൊമെയ്നുകളുടെയും സബ് ഡൊമെയ്നുകളുടെയും വിലയിരുത്തലാണ് കോമംപിഹൻസിവ് അസെസ്മെൻറ് സിസ്റ്റം എന്ന് സി എ എസ് ഇതിൽനിന്ന് വേറിട്ട് മുതിർന്നവരുടെ ഇന്റലിജൻസ് പരിശോധനകൾ അളക്കുന്ന മറ്റ് നിരവധി ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇന്റലിജൻസ് അളക്കുന്നതിന്റെ ചരിത്രപരമായ വളർച്ച പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് ലഭ്യമായ ആദ്യ പരീക്ഷണതെ ഐക്യു ടെസ്റ്റ് എന്ന് വിളിക്കുന്നു ഈ ആശയം വികസിപ്പിച്ചെടുത്തത് വില്യം സ്റ്റെർനാണ് ഫ്രഞ്ച് ഗവൺമെൻറിൻറെ ആവശ്യാനുസരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇന്റൽലെക്ച്വൽ പ്രൊഫൈൽ മനസ്സിലാക്കുന്നതിനായി സ്കൂൾ പശ്ചാത്തലത്തിൽ ഇതിനെ വികസിപ്പിച്ചെടുത്തത് ആൽബർട്ട് ബിനറ്റ് ആണ് എന്തുകൊണ്ടാണ് ചില കുട്ടികൾ മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാർത്ഥികളുള്ളതിനാൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തുവാനാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് വിദ്യാർത്ഥികളെ വ്യത്യസ്ത വിഭാഗങ്ങളായി എങ്ങനെ തരംതിരിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും മികച്ച മാർഗം വിദ്യാർത്ഥികളുടെ ബദ്ധിക കഴിവ് വിലയിരുത്തി അവരെ പ്രത്യേക ക്ലാസുകളാക്കുന്നതാണ് അതുകൊണ്ടാണ് IQ MACA x 100 എന്നറിയപ്പെടുന്ന ഒരു ഫോർമുല വികസിപ്പിച്ചെടുത്തത് എം എ എന്നത് മെൻറൽ എയ്ജ് മാനസിക വയസ്സ് സി എ എന്നത് ക്രോണോളജിക്കൽ ഏജ് ദശാംശത്തെ കുറയ്ക്കുന്നതിന് ഇതിനെ നൂറുകൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഒരു കുട്ടിയുടെ മാനസിക വളർച്ച കണക്കാക്കുന്നത് ഐക്യു പരിശോധനയിൽ വിജയിച്ച ഇനങ്ങളുടെ എണ്ണം മനസ്സിലാക്കുന്നതിലൂടെയാണ് കണ്ടൻറ്റ് തിയറി ഫാക്ടർ തിയറി പ്രോസസ് തിയറി ഇങ്ങനെ വിവിധതരം സിദ്ധാന്തങ്ങളുണ്ട് ഫാക്ടർ തിയറിയിൽ നമുക്ക് ജി ഫാക്ടർ തുർസ്റ്റോൺ ഏഴ് പ്രാഥമിക മാനസിക കഴിവുകൾ എന്നീ വിവിധ ആശയങ്ങൾ ഉണ്ട് ഗിൽഫോർഡ് നൽകിയ ഇന്റലിജൻസ് ഘടനയിലൂടെ 180 ഫാക്ടർസ് വരെ അളന്നെടുക്കാൻ സാധിക്കുന്നു മനുഷ്യൻറെ കഴിവുകളെയും മനുഷ്യർ എപ്രകാരം വ്യത്യസ്തരായിരുന്നു എന്നതിനെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിവിധ സിദ്ധാന്തങ്ങൾ ലഭ്യമാണ് ഏവർക്കും നന്ദി ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം നമുക്ക് വീണ്ടും കാണാം